നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മൊഡ്യൂൾ 1 യൂണിറ്റ് 4 ലേക്ക് സ്വാഗതവും യൂണിറ്റ് 4 ൽ ഞങ്ങൾ നോക്കിയത് പഠനം വിലയിരുത്തൽ നിർദ്ദേശം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് പഠനത്തിലൂടെ പുതിയ അറിവ് പെരുമാറ്റം കഴിവുകൾ മൂല്യങ്ങൾ മുൻഗണനകൾ അല്ലെങ്കിൽ ധാരണ എന്നിവ നേടുന്നതായി ഞങ്ങൾ കണക്കാക്കി കൂടാതെ പഠനത്തിന് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് മാത്രമല്ല പഠനത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും പരസ്പരവിരുദ്ധമല്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയും വേണം ഓരോ സിദ്ധാന്തവും പഠനത്തിന്റെ ചില വശങ്ങൾക്ക് ഊന്നൽ നൽകിയേക്കാം വാസ്തവത്തിൽ ഒരാൾക്ക് പഠനത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും സവിശേഷതകളോ ഇൻപുട്ടുകളോ എടുക്കുന്ന ഒരു നിർദ്ദേശം രൂപകൽപ്പന ചെയ്യാൻ കഴിയും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയത്തിൻ്റെ കേന്ദ്രീകരണം അളക്കാനും വിലയിരുത്തലിലൂടെ സുഗമമാക്കാനും ഞങ്ങൾ ശ്രമിച്ചു നല്ല പഠനം സുഗമമാക്കുന്നതിനുള്ള വളരെ ശക്തമായ ഉപകരണമാണ് വിലയിരുത്തൽ ഉത്തമ പഠനം സുഗമമാക്കുന്നതിന് പഠന പരിപാടികളുടെ ഒരു പരമ്പര ആസൂത്രണം ചെയ്യുകയും നടത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് നിർദ്ദേശം പിന്നീടുള്ള മൊഡ്യൂളുകളിലെ വിലയിരുത്തലും നിർദ്ദേശവും ഞങ്ങൾ പരിശോധിക്കും ഈ യൂണിറ്റിൻ്റെ ഫലങ്ങളിൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉത്ഭവം മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു ഒരു ഫലം എന്താണെന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ മനസ്സിലാക്കുക ഒരു പ്രോഗ്രാമിൻ്റെയോ കോഴ്സിൻ്റെയോ ഫലങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ എഴുതുന്നതിനും നിർവചിക്കുന്നതിനും ഞങ്ങൾ നിരവധി സെഷനുകൾ ചെലവഴിക്കും ഈ യൂണിറ്റിൻ്റെ അവസാനത്തിൽ പഠിതാവിന് ഒരു നിർദ്ദിഷ്ട ഫല പ്രസ്താവനയുടെ നില തിരിച്ചറിയാനും അതിൻ്റെ ഔചിതൃം അല്ലെങ്കിൽ നിരീക്ഷണക്ഷമത അളക്കാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ച് അഭിപ്രായപ്പെടാനും കഴിയും ഫലങ്ങളുടെ 4 തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു അതായത് ഞങ്ങൾ അവയെ പിഇഒകൾ പിഒകൾ പിഎസ്ഒകൾ സിഒകൾ എന്ന് വിളിക്കുന്നു ഓരോന്നും ഞങ്ങൾ പിന്നീട് വിശദീകരിക്കും ഒബിഇ എങ്ങനെ ആരംഭിച്ചു 1970 കൾ മുതൽ പല രാജ്യങ്ങളിലെ നയ നിർമാതാക്കൾക്കും തത്പരകക്ഷികൾക്കും വിദ്യാർത്ഥികൾ കൃത്യമായി എന്താണ് പഠിക്കുന്നതെന്നതിൽ ഒരുതരം സ്വാധീനശക്തി ഉണ്ടാകുമെന്ന് ഊന്നിപ്പറയുന്നു സ്കൂളുകളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അതിലൂടെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് കൃത്യമായി കണക്കാക്കാനോ സംഗ്രഹിക്കാനോ കഴിയും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്ന പദം 1994 ൽ വില്യം സ്പാഡി തൻ്റെ പുസ്തകത്തിൽ ആദ്യമായി ഉപയോഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു 'ഔട്ട്കം ബേസ്ഡ് എഡൃുക്കേഷൻ ക്രിട്ടൽ ഇഷൃൂസ് ആൻഡ് ആൻസർസ്' എന്നതാണ് പുസ്തകം ഈ പുസ്തകം നോക്കാൻ പഠിതാക്കളോട് ഞാൻ ശുപാർശ ചെയ്യുന്നു അത് ലഭ്യമാണ് ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാൻ കഴിയും 1997 ൽ എബിഇടി യുഎസ്എയുടെ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഇതേ ഉദ്യമം തുടർന്നു ഇസി 2000 എന്ന് ലേബൽ ചെയ്ത എഞ്ചിനീയറിംഗ് മാനദണ്ഡം 2000 സ്വീകരിച്ചു ഇത് ഇൻപുട്ടുകളിൽ നിന്ന് ഫോക്കസ് മാറ്റി ഇൻപുട്ടുകൾ അർത്ഥമാക്കുന്നത് വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങളിലേക്ക് ഫലങ്ങൾ പഠിപ്പിക്കുന്നതെന്താണ് എന്നാണ് അതിനാൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാരാംശം പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നു എന്നത് വില്യം സ്പേഡിയെക്കുറിച്ച് കുറച്ച് പറയാം ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്നാൽ "അത്യാവശ്യ" ത്തിന് ചുറ്റുമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യക്തമായി ക്രമീകരിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയകരമായി അവരുടെ പഠനാനുഭവങ്ങളുടെ അവസാനം ചെയ്യാൻ കഴിയുന്നതിന് ഫോക്കസ് അത്യാവശ്യമാണെന്ന് ശ്രദ്ധിക്കുക പ്രധാന വാക്ക് അത്യാവശ്യമാണെന്ന് ദയവായി ശ്രദ്ധിക്കുക അതിനർത്ഥം അഭികാമ്യമായത് അത്യാവശ്യമായതിനേക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ മുഴുവൻ കാര്യങ്ങളും മുൻകൂട്ടി നിർവചിച്ച ഫലങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് കരുതരുത് ഇതിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നതിൻ്റെ വ്യക്തമായ ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഈ പഠനം ആത്യന്തികമായി സംഭവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് പാഠ്യപദ്ധതി നിർദ്ദേശം വിലയിരുത്തൽ എന്നിവ സംഘടിപ്പിക്കുക എന്നതാണ് അതിനാൽ ഒബിഇ അല്ലെങ്കിൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാരാംശം പാഠ്യപദ്ധതിയും നിർദ്ദേശവും വിലയിരുത്തലും എല്ലാം നിങ്ങൾ ഫലങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി വർത്തിക്കുന്നു മാത്രമല്ല പ്രോഗ്രാമിലെ ബാക്കി പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്ര വസ്തുവായി ഓരോ കോഴ്സിനെയും പരിഗണിക്കുന്നത് അക്കാദമിക് സ്ഥാപനങ്ങളിൽ വളരെ സാധാരണമായ സമ്പ്രദായമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു പ്രോഗ്രാം ആണ് കേന്ദ്രബിന്ദു അത് വ്യക്തിഗത കോഴ്സല്ല ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെ സ്പാഡി പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ സ്കൂൾ വിദ്യാഭ്യാസത്തിലായിരുന്നു എബിഇടി ചെയ്തതുപോലെ ഈ ഫലം എന്ന ആശയം ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും വ്യാപിപ്പിച്ചു ഇപ്പോൾ ഇത് ഒരുതരം സ്വീകാര്യമായ പരിശീലനമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ പരിപാടികൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടത്തുന്നതിനുമുള്ള അടിസ്ഥാനമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പഠനത്തിൻ്റെ ഫലങ്ങൾ നിരവധി പതിറ്റാണ്ടുകളായി ഒരുപക്ഷേ 60 70 വർഷത്തിൽ കൂടുതൽ പഠനത്തിൻ്റെ ഫലങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധരുടെയും വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞരുടെയും നിരവധി ആളുകളുടെയും ആശങ്കയാണ് അതുകൊണ്ടാണ് പഠനത്തിൻ്റെ ഒരേ ഫലങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് നിരവധി പദങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വിഷയ സംബന്ധിയായ സകല രചനകളിൽ നിന്നും ഇനിപ്പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണാം ഫലങ്ങൾ പഠന ഫലങ്ങൾ ഉദ്ദേശിച്ച പഠന ഫലങ്ങൾ പ്രബോധന ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പെരുമാറ്റ ലക്ഷ്യങ്ങൾ പ്രകടന ലക്ഷ്യങ്ങൾ ടെർമിനൽ ലക്ഷ്യങ്ങൾ പൊതുവായ പ്രബോധന ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ട പഠന ഫലങ്ങൾ ഉപകാരകമായ കഴിവുകൾ ഉപകാരകമായ ലക്ഷ്യങ്ങൾ കഴിവുകൾ അവയെല്ലാം ഏതാണ്ട് പരസ്പരം തുല്യമാണെങ്കിലും ചില ആളുകൾ മറ്റ് വാക്കുകളിൽ നിന്ന് ചില വാക്കുകൾ വളരെ വ്യത്യസ്തമായ സന്ദർഭത്തിൽ വേർതിരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇന്ന് യുഎസ്എയുടെ പശ്ചാത്തലത്തിൽ കോംപിറ്റൻസി ബേസ്ഡ് വിദ്യാഭ്യാസം ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് അൽപം വ്യത്യസ്തമാണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്താണെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെ പറ്റി ഇപ്പോൾ വിഷമിക്കേണ്ടതില്ല വ്യത്യസ്ത വിദ്യാഭ്യാസ വിദഗ്ധർ ഈ പദങ്ങൾ വളരെ നിർദ്ദിഷ്ടമായ എന്തെങ്കിലും അർത്ഥമാക്കുന്നതിന് ഉപയോഗിച്ചേക്കാം എന്ന് പറയാൻ ഞാൻ ഇത് ഒരു ഉദാഹരണമായി നൽകി ഇപ്പോൾ എന്താണ് ഫലം ഞങ്ങൾ അത് ഔദ്യോഗികമായി നിർവചിക്കും ഇവിടെ ചില പഠനാനുഭവങ്ങളുടെ ഫലമായി പഠിതാവിന് ചെയ്യാൻ കഴിയുന്നതോ നിർവ്വഹിക്കുന്നതോ ആയ ഒന്നാണ് ഔട്ട്കം ഇത് ഒരു നിങ്ങൾ ഫലം എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും മികച്ചതുമായി പൂർണ്ണ നിർവചനം എന്ന് എനിക്ക് തോന്നുന്നു ഒരാൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇത് വളരെ ലളിതമായ നിർവചനമാണ് ഇത് സൂചിപ്പിക്കുന്നത് "എൻ്റെ പഠനാനുഭവത്തിന് മുമ്പ് എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു പഠനാനുഭവത്തിനുശേഷം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും" എന്നതാണ് അതിനാൽ കേന്ദ്രബിന്ദു ചെയ്യുക അല്ലെങ്കിൽ നിർവഹിക്കുക അറിയുക പരിചിതം തുടങ്ങിയ വാക്കുകൾ പോലെയല്ല അതിനാൽ ചെയ്യുന്നതിലും പ്രകടനം നടത്തുന്നതിലും ഊന്നൽ നൽകുന്ന പ്രധാന പദങ്ങൾ ശ്രദ്ധിക്കുക ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഫലമെന്നാൽ 2 വർഷത്തെയോ 3 വർഷത്തെയോ 4 വർഷത്തെയോ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ അവസാനം വിദ്യാർത്ഥിക്ക് എന്തു ചെയ്യാൻകഴിയുമെന്നതാണ് കോൺടെക്സ്റ്റ് ഒരു സെമസ്റ്റർ കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സിന്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് 1 മുതൽ 4 വരെ 5 മണിക്കൂർ പ്രവർത്തനത്തിൽ എവിടെയും അടങ്ങിയിരിക്കാം ഫലത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഫലങ്ങൾ തല്പരകക്ഷികൾക്കിടയിൽ ഫലപ്രദമായ ഇടപെടലിന് അടിസ്ഥാനം നൽകുന്നു എന്നതാണ് ആരാണ് ബന്ധപ്പെട്ടവർ വിദ്യാർത്ഥികൾ ഫാക്കൽറ്റി രക്ഷകർത്താക്കൾ വ്യവസായങ്ങൾ മാനേജുമെൻ്റ് സർക്കാർ ഏജൻസികൾ തുടങ്ങിയവയിൽ നിന്ന് ആരംഭിക്കുക അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനെക്കുറിച്ചോ ഒരു കോഴ്സിനെക്കുറിച്ചോ സംസാരിക്കണമെങ്കിൽ ബന്ധപ്പെട്ടവർ തമ്മിലുള്ള സംഭാഷണം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ തമ്മിലുള്ള ചർച്ച ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകാം ആളുകൾക്ക് തർക്കിക്കാം വിഭിന്നരാകാൻ കഴിയും പക്ഷേ ഒടുവിൽ ഒരാൾ അന്വേഷിക്കുന്ന ഫലത്തെക്കുറിച്ച് കൃത്യമായി ഒരു കരാറിലെത്താം ഇപ്പോൾ ഒരു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം ഔദ്യോഗികമായി നിർവചിക്കുന്നത് വിദ്യാഭ്യാസത്തിനായുള്ള ഒരു സമീപനമാണ് ഒബിഇ അത് പാഠ്യപദ്ധതി നിർദ്ദേശം വിലയിരുത്തൽ എന്നിവയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വിദ്യാർത്ഥി അവസാനം പ്രദർശിപ്പിക്കേണ്ട എക്സിറ്റ് പഠന ഫലങ്ങളാൽ നയിക്കപ്പെടുന്നു വിദ്യാർത്ഥി പ്രദർശിപ്പിക്കേണ്ട ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഴ്സിന്റെ എക്സിറ്റ് പഠന ഫലങ്ങളാണിതെന്ന് ദയവായി ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഫലങ്ങൾ ഒന്നിൽ കൂടുതൽ ആകാം നിരവധിയുണ്ട് അതിനാൽ നിങ്ങൾ നിലപാട് ഇത് ആയിരിക്കണം ഒരു പ്രോഗ്രാമിന്റെയോ കോഴ്സിന്റെയോ അവസാനം ഈ ഫലങ്ങൾ നേടിയെടുക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയണം ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് ഒരു നിർദ്ദേശ യൂണിറ്റിലും പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ ഉൽപ്പന്നം നടപടിക്രമത്തെ നിർവചിക്കുന്നു എന്താണ് ഇതിനർത്ഥം ആദ്യം ഞങ്ങൾ ഉൽപ്പന്നത്തെ നിർവചിക്കുന്നു എന്താണ് ഉൽപ്പന്നം ഒരു പ്രോഗ്രാമിൻ്റെയോ കോഴ്സിൻ്റെയോ അവസാനം വിദ്യാർത്ഥി പ്രദർശിപ്പിക്കേണ്ട പഠന ഫലങ്ങൾ അത് നിർവചിച്ചുകഴിഞ്ഞാൽ ആ ഫലങ്ങൾ കൈവരിക്കുന്നതിലേക്ക് നയിക്കുന്ന എല്ലാ പ്രക്രിയകളും ഉൽപ്പന്നങ്ങളെ നിർവചിക്കുന്നതിൻ്റെ അനന്തരഫലമായി വരുന്നു അതിനർത്ഥം ആദ്യം ഉൽപ്പന്നം നിർവചിക്കേണ്ടതുണ്ട് തുടർന്ന് നടപടിക്രമം എല്ലാ വ്യവസായങ്ങളിലും ഇത് ശരിയാണ് അവർ ഒരു ഉൽപ്പന്നം പുറത്തിറക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ആദ്യം എന്തെങ്കിലും രൂപകൽപ്പന ചെയ്ത് തുടർന്ന് ഉപയോക്താക്കൾ വാങ്ങേണ്ട ഉൽപ്പന്നമാണിതെന്ന് പറയുകയല്ല ഒരു ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾ നിർവചിക്കുകയും പിന്നിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകുന്നതും ഫലം എന്തായാലും സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരുമാകുന്ന ഇൻപുട്ട് അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വിപരീതമാണ് ഇത് ഇപ്പോഴും ആകസ്മികമായി ഇത് എല്ലായ്പ്പോഴും അനഭികാമ്യമല്ല പക്ഷേ ആകസ്മികമായി അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് ഉന്നതവിദ്യാഭ്യാസത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ഞാൻ പ്രധാനമെന്ന് കരുതുന്നത് പഠിപ്പിക്കുകയും സെമസ്റ്ററിന്റെ അവസാനം അത് നിങ്ങൾ അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം അത് തന്നെ ഇപ്പോൾ നമുക്ക് ഒബിഇ യുടെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ആദ്യം "പ്രസക്തി" ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പരിശീലനത്തിനുള്ള ഔചിത്യവും വിദ്യാഭ്യാസത്തിനുള്ള സാമർത്ഥ്യവും പ്രോത്സാഹിപ്പിക്കുന്നു പരിശീലനത്തിനുള്ള ഫിറ്റ്നസ് എന്താണ് ഇന്ന് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറിനെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ നോക്കിയാൽ ഒരു ബിരുദ പ്രോഗ്രാമിൽ നിന്ന് പുറത്തുവരുമ്പോൾ അയാൾക്ക് എന്തുതരം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം ഇത് വ്യവസായത്തിൻ്റെ നിലവിലെ അവസ്ഥയെയും ബിരുദ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ നൽകുന്ന അറിവിനേയും നൈപുണ്യത്തേയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഒരാൾ യഥോചിതം തയ്യാറായി അതിനർത്ഥം ബിരുദ പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ അടുത്ത ദിവസം തന്നെ അദ്ദേഹം വ്യവസായത്തിന് ആവശ്യമായ പ്രവൃത്തി ആരംഭിക്കുമെന്നല്ല എന്നാൽ അദ്ദേഹം അറിവിലും നൈപുണ്യത്തിലും തയ്യാറാണെന്നും ഓർഗനൈസേഷൻ്റെ ആവശ്യകത അനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാക്കാൻ കുറച്ച് സമയമെടുക്കും കഴിവിനായുള്ള വിദ്യാഭ്യാസം അതിൻ്റെ അർത്ഥം കഴിവും നൈപുണ്യവും അവ കുറച്ച് വ്യത്യസ്തമാണ് യോഗ്യത എന്നാൽ നിങ്ങൾക്ക് ഇതിനകം ഉള്ള കഴിവുകളും അറിവും എന്നാണ് കഴിവ് എന്നതിനർത്ഥം നിങ്ങൾക്ക് മുമ്പ് പരിചിതമല്ലാത്ത തെറ്റായി നിർവചിക്കപ്പെട്ട ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് അഭിസംബോധന ചെയ്യാൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ബിരുദധാരികളെ പ്രാപ്തരാക്കുന്നു പ്രാപ്തിയുള്ളവർ എന്നാൽ അവർക്ക് ഇതിനകം പരിചിതമല്ലാത്ത യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരാണ് ശരി അടുത്ത നേട്ടത്തിലേക്ക് വരുന്നു "പ്രഭാഷണം" സ്ഥാപനത്തിനുള്ളിലെ ഫലങ്ങൾ തിരിച്ചറിയുന്ന പ്രക്രിയ തന്നെ അടിസ്ഥാന ചോദ്യങ്ങളുടെ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്തുസംഭവിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഫലങ്ങൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ പ്രോഗ്രാം തലത്തിലോ കോഴ്സ് തലത്തിലോ പോലും ഒരു വ്യക്തി തനിച്ച് ഇത് എഴുതാൻ പാടില്ല സമന്മാർ തമ്മിലുള്ള ചർച്ചയിലൂടെയാണ് എല്ലായ്പ്പോഴും തൃപ്തികരമായ ഫലങ്ങൾ പുറത്തുവരുന്നത് ഇത് ഞങ്ങൾ ചെയ്ത ഡസൻ കണക്കിന് വർക്ഷോപ്പുകളിൽ നിന്ന് ഉദ്ധരിച്ചതാണ് എപ്പോഴെല്ലാം രണ്ടോ മൂന്നോ ഫാക്കൽറ്റികളോട് അവരുടെ കോഴ്സിൻ്റെ ഫലങ്ങൾ എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്കിടയിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായും ഇതിൻ്റെ ഫലമായി വളരെ മികച്ച പ്രസ്താവനകൾ മികച്ച ഫല പ്രസ്താവനകൾ ലഭിക്കും അടുത്തത് "വ്യക്തത" ആണ് വിദ്യാഭ്യാസ നടപടിക്രമം കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതിൻ്റെ വ്യക്തമായ പ്രസ്താവന വിദ്യാർത്ഥികൾക്കും അദ്ധ്യാപകർക്കും പാഠ്യപദ്ധതി സ്പഷ്ടമാക്കുകയും അദ്ധ്യാപനത്തിനും പഠനത്തിനും കേന്ദ്രബിന്ദു ആകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ വ്യക്തത കൈവരിക്കണം ആ വ്യക്തത എങ്ങനെ നേടാം പിന്നീടുള്ള ഒരു യൂണിറ്റിൽ എങ്ങനെ ഫലങ്ങൾ ഫല പ്രസ്താവനകൾ എഴുതാം എന്നതിനെക്കുറിച്ച് സംസാരിക്കും പക്ഷേ ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ വ്യക്തമാണ് അതിനാൽ ഏത് സമയത്തും അവ്യക്തതയില്ല മാത്രമല്ല ഇത് പഠനത്തിനായി വിദ്യാർത്ഥികളിലേക്കും അദ്ധ്യാപനത്തിനായി അദ്ധ്യാപകരിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ സംയോജനത്തിന് ശക്തമായ "ചട്ടക്കൂട്" നൽകുന്നു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ദേശീയ അക്രഡിറ്റേഷൻ ചട്ടക്കൂടിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരാൾക്ക് ഒരു പ്രോഗ്രാമിൻ്റെ മുഴുവൻ പാഠ്യപദ്ധതിയും രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള മികച്ച ശക്തമായ ചട്ടക്കൂട് നൽകാൻ കഴിയും "ഉത്തരവാദിത്വം" പാഠ്യപദ്ധതി നേടാൻ ഉദ്ദേശിക്കുന്നതെന്താണെന്ന് വ്യക്തമായ ഒരു പ്രസ്താവന നൽകുന്നതിലൂടെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം ഉത്തരവാദിത്വത്തിന് പ്രാധാന്യം നൽകുന്നു അതിനർത്ഥം ഞാൻ ഒരു പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില ഫലങ്ങൾ കൈവരിക്കുന്നതിന് എൻ്റെ കോഴ്സ് ആവശ്യമാണ് അതായത് എൻ്റെ കോഴ്സ് ക്രെഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചില ഫലങ്ങൾ നേടേണ്ടതുണ്ട് ഈ ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങളുടെയും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളുടെയും ഒരു ഉപസെറ്റിനെ ഏതിന് ആരാണ് ഉത്തരവാദി എന്ന് വ്യക്തമാക്കിയ പരിധി വരെ അഭിസംബോധന ചെയ്യുന്നു അതേ കണക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവർ നേടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട് മാത്രമല്ല അവർക്ക് അവരുടെ സ്വന്തം പഠനത്തിനും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിനും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും അങ്ങനെ പഠനത്തിനും അദ്ധ്യാപനത്തിനുമായി വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള സമീപനം പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അത് പ്രോഗ്രാം ഫലങ്ങളിൽ ഒന്നാണ് അത് ഞങ്ങൾ വിളിക്കുന്നതുപോലെ സ്വയം സംവിധാനം ചെയ്ത പഠനവുമാണ് തുടർന്ന് "വഴക്കം" അനേകം അധ്യാപകർ പറഞ്ഞതുപോലെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസ തന്ത്രങ്ങളോ അധ്യാപന രീതികളോ വ്യക്തമാക്കുന്നില്ല ഫലം എന്തായിരിക്കണമെന്ന് മാത്രമേ അത് പറയൂ ഇതിനർത്ഥം നിങ്ങൾ അത് എങ്ങനെ നേടണം അത് എങ്ങനെ നേടാം എന്നല്ല ബന്ധപ്പെട്ട അധ്യാപകന് അതിന് ആവശ്യമായ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കൂടാതെ കോഴ്സ് രൂപകൽപ്പനയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ വിലയിരുത്തലിനുള്ള ഒരു ഗൈഡായും ഇത് പ്രവർത്തിക്കുന്നു അവിടെയാണ് ഞങ്ങൾ ഫലത്തെ വിലയിരുത്തലുമായി ശക്തമായി ബന്ധിപ്പിക്കുന്നത് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ വിലയിരുത്തൽ ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ എങ്ങനെ ആരംഭിക്കാം എൻബിഎയിൽ നിന്നുള്ള ഒരു നിബന്ധനയായ പാഠ്യപദ്ധതി വിലയിരുത്തൽ സുഗമമാക്കുന്നു പാഠ്യപദ്ധതി വിലയിരുത്താൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ ഫലങ്ങൾ നൽകുന്നു പിന്നീടുള്ള യൂണിറ്റുകളിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും അത് എത്രത്തോളം ഫലങ്ങൾ കൈവരിച്ചുവെന്ന് അളക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഇവയെല്ലാം ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ഒബിഇ യെക്കുറിച്ചുള്ള എതിർപ്പ് ചില ആളുകൾ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പൊരുളിന് വിരുദ്ധമാണെന്ന് ശക്തമായി കരുതുന്നു സൂക്ഷ്മപരിശോധനയുടെ കാര്യത്തിലും മറ്റും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒബിഇ പറയുന്നത് അത്യാവശ്യമായത് മാത്രമാണ് അഭികാമ്യമല്ല കൂടുതൽ എന്തുചെയ്യാൻ കഴിയും എന്നല്ല അതിനാൽ ഒരു തരത്തിലും OBE OBE ചില അവശ്യകാര്യങ്ങൾക്ക് ഉറപ്പുനൽകുന്നു അതിനു മുകളിൽ അവ അധ്യാപകൻ്റെയും അത് സ്ഥാപനത്തിൻ്റെയും പരിധിയാണ് അതിനപ്പുറം പര്യവേക്ഷണം ചെയ്യേണ്ടത് വിദ്യാർത്ഥികളാണ് ഒരു തരത്തിലും ഒബിഇ വിദ്യാഭ്യാസത്തിൻ്റെയും ചില ആളുകളുടെയും ആദർശത്തിന് വിരുദ്ധമല്ല കാരണം നിങ്ങൾ വളരെ വിശദമായി നിർവചിക്കുന്നതിനാൽ ഇത് നേരായ പുറംചട്ടയായി കണക്കാക്കപ്പെടുന്നു വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ സ്വയംഭരണാധികാരമില്ലാത്ത സ്ഥാപനങ്ങളിലൊഴികെ അദ്ധ്യാപകനാണ് ഫലങ്ങളിൽ പ്രധാനമായും ആധിപത്യം പുലർത്തുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോഴ്സ് പഠിപ്പിക്കുന്ന അദ്ധ്യാപകനാണ് ഫലങ്ങൾ എഴുതുന്നത് സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു അദ്ധ്യാപകൻ പ്രതീക്ഷിച്ച ഫലങ്ങൾ എന്താണെന്ന് വിദ്യാർത്ഥികളോട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു കൂടാതെ ആ ഫലങ്ങൾ എന്തായിരിക്കണമെന്ന് എഴുതാനോ തീരുമാനിക്കാനോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഒരു ഫല പ്രസ്താവനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് വിദ്യാർത്ഥിക്ക് എന്തുചെയ്യാൻ കഴിയുമെന്നത് വ്യക്തമായി പ്രസ്താവിക്കണം എന്നതാണ് പ്രസ്താവന സ്പഷ്ടമായിരിക്കണം വിദ്യാർത്ഥികൾ ചെയ്യുന്നതോ നടപ്പിലാക്കുന്നതോ അവർ ചെയ്യുന്നതെന്തും നിരീക്ഷിക്കാവുന്നതും വിലയിരുത്താവുന്നതുമായിരിക്കണം അയാൾക്ക് പരിചയമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് നേരിട്ട് പരിചയമുള്ളത് എന്തെന്ന് എനിക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ പ്രസ്താവിക്കുന്ന എന്തും നിരീക്ഷിക്കാവുന്നതും വിലയിരുത്താവുന്നതുമായിരിക്കണം വിദ്യാർത്ഥിക്ക് അതിന്റെ അർത്ഥം മനസിലാക്കാൻ കഴിയണം അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അവ ഉൾക്കൊള്ളാവുന്നതേയുള്ളൂ അവിടെ വിദ്യാർത്ഥിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസിലാക്കാൻ പ്രയാസമായി വളരെ സങ്കീർണ്ണമായ ഒരു വാക്യത്തിൽ ഇത് എഴുതാൻ കഴിയില്ല വിദ്യാർത്ഥിക്ക് അവരുടെ പഠനം ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവ എഴുതണം അത് ഫല പ്രസ്താവനകൾ വ്യക്തമായി എഴുതേണ്ടതിന് ഇത് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു വിവിധ യൂണിറ്റുകളിലും മൊഡ്യൂളുകളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് തത്ത്വങ്ങൾ ഇവയാണ് ഒരു കോഴ്സിൻ്റെ അവസാനം അവർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് വ്യക്തമാകുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നു കോഴ്സിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ നന്നായി പഠിക്കുന്നു ഇത് വിപുലമായ ഗവേഷണത്തിലൂടെ ആവർത്തിച്ച് സ്ഥാപിക്കപ്പെട്ടതാണ് ഇവിടെ ലക്ഷ്യങ്ങൾ ഫല പ്രസ്താവനകളാണ് വിലയിരുത്തൽ അവർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു ഈ പൊരുത്തപ്പെടൽ പ്രശ്നം കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കും അതിനർത്ഥം വിദ്യാർത്ഥിക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവനോട് ആവശ്യപ്പെടണം അത് മറ്റൊന്നാകാൻ കഴിയില്ല അതാണ് പൊരുത്തപ്പെടൽ ഫല പ്രസ്താവനയുമായി അവ്യക്തമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തലായിരിക്കരുത് ഇത് അവ പരസ്പരം പൊരുത്തപ്പെടണം ഇത് സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലോ ഉന്നത വിദ്യാഭ്യാസ തലത്തിലോ സാധുവാണ് അവർ നേടണമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നതിനായി പ്രബോധന പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നു അതിനർത്ഥം ആവശ്യകത ഒരു വിദ്യാർത്ഥിയ്ക്ക് പ്രത്യേക വിഭാഗം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്നാണെങ്കിൽ പരിഹരിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് പരിഹരിക്കാനാകുമെന്ന് നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യണം അതിനാൽ എല്ലായ്പ്പോഴും നല്ല പഠനത്തിൻ്റെ മൂന്ന് പ്രധാന തത്ത്വങ്ങൾ ഇവയാണ് ഇപ്പോൾ ഞങ്ങളുടെ ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്ക് വരുമ്പോൾ നാല് തലത്തിലുള്ള ഫലങ്ങൾ തിരിച്ചറിഞ്ഞു ഇവയെ പ്രോഗ്രാം എജ്യുക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നു ഫലത്തിനു പകരം ഒബ്ജക്റ്റീവ് എന്ന പദം ഉപയോഗിച്ചു ഞങ്ങൾ അത് പിന്നീട് വിശദീകരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാം ഫലങ്ങൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ കോഴ്സ് ഫലങ്ങൾ എന്നിവയുണ്ട് പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ തൊഴിലിനേയും ബിരുദാന്തരം അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നേടാനുള്ള പ്രോഗ്രാം പ്രാപ്തമാക്കുന്ന തൊഴിൽപരമായ നേട്ടങ്ങളേയും വിശദീകരിക്കുന്ന വ്യാപകമായ പ്രസ്താവനയാണ് ഇത് ഉദാഹരണത്തിന് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിഇ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബിരുദധാരികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സാമാന്യമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അവർക്ക് അങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല പക്ഷേ അവരിൽ ഭൂരിഭാഗവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കാൻ പോകുന്നു കൂടാതെ ബിരുദധാരികൾക്ക് നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്ന ചിലതരം പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് കഴിയും ബിരുദത്തിനുശേഷം അതായത് 80 ബിരുദധാരികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നില്ല മറിച്ച് മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BE പ്രോഗ്രാമിന് അർത്ഥമില്ല അതിനായി നിങ്ങൾ ധാരാളം സമയവും വിഭവങ്ങളും പാഴാക്കുന്നുവെന്നത് വിലമതിക്കാവുന്നതല്ല ഇതിനർത്ഥം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുന്നത് ബിരുദാനന്തരം നാലഞ്ച് വർഷങ്ങൾക്കകം നിങ്ങളുടെ വിദൃാർത്ഥികൾ എന്തു ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദാഹരണത്തിന് ഒരു സാമ്പിൾ നൽകിയിരിക്കുന്നു ബിരുദധാരികൾ നാലോ അഞ്ചോ വർഷത്തിനുശേഷം ബിരുദധാരികൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ പരിജ്ഞാനം പ്രയോഗിക്കുന്ന സാമൂഹിക പ്രസക്തിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണവും നടത്തും അത് ഇങ്ങനെ കൃത്യമായി എഴുതണമെന്ന് ഇതിനർത്ഥമില്ല പക്ഷേ ഇഇഇ പ്രോഗ്രാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിഇ പ്രോഗ്രാമിൻ്റെ സാമ്പിൾ എന്ന് പറയാം പ്രോഗ്രാം ഫലങ്ങളിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ നിന്ന് ബിരുദം നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് കഴിവുകൾ നില എന്നിവ വിവരിക്കുന്ന പ്രസ്താവനകളാണ് പ്രോഗ്രാം ഫലങ്ങൾ അതിനർത്ഥം 4 വർഷത്തിൻ്റെ അവസാനം ഇവർക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് കഴിവുകൾ നില എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നിലവിൽ പിഒകളുടെ എണ്ണം 12 ആണ് അവ എൻബിഎ തിരിച്ചറിയുകയും എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കും ബാധകവുമാണ് അവർ പ്രത്യേക വിജ്ഞാനശാഖ ആശ്രയിക്കുന്നില്ല അതായത് എല്ലാ ബിരുദധാരികളും ഈ 12 പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് ഞങ്ങൾ അതിൽ ഗണ്യമായ സമയം ചെലവഴിക്കുമ്പോൾ ഈ 12 ഫലങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അവർ വിജ്ഞാനശാഖാപരവും പ്രൊഫഷണലുമായ കഴിവുകളെ അഭിസംബോധന ചെയ്യുന്നു വിജ്ഞാനശാഖ എന്നത് പ്രത്യേക വിഷയത്തിന് പ്രത്യേകവും പ്രൊഫഷണൽ എന്നത് ഏതെങ്കിലും തരത്തിലുള്ള എഞ്ചിനീയറിംഗ് തൊഴിലിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട കഴിവുകളെയാണ് അർത്ഥമാക്കുന്നത് ഒരു സാമ്പിൾ എൻബിഎ നൽകിയ പിഒകളുടെ പട്ടികയിൽ നിന്ന് ഇത് നേരിട്ട് എടുക്കുന്നു PO3 പ്രസ്താവിക്കുന്ന രൂപകൽപ്പന പരിഹാരങ്ങളുടെ വികസനം അതാണ് ഇതിൻ്റെ ശീർഷകം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്കും ഡിസൈൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പൊതുജനാരോഗ്യത്തിനും സുരക്ഷയ്ക്കും സാംസ്കാരിക സാമൂഹിക പാരിസ്ഥിതിക പരിഗണനകൾക്കും ഉചിതമായ പരിഗണന നൽകിക്കൊണ്ട് ഡിസൈൻ പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യുക നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇതിൽ നിരവധി കീവേഡുകൾ ഉണ്ട് പിന്നീടുള്ള യൂണിറ്റുകളിൽ അത്തരം പ്രസ്താവനകളുടെ ഓരോ സവിശേഷതകളും പരിശോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇപ്പോൾ എൻബിഎ ഇങ്ങനെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാത്തിനുമുപരി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ അർത്ഥമാക്കുന്നത് അവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിജ്ഞാനശാഖയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നാണ് എന്നാൽ ഓരോ പ്രോഗ്രാമും പ്രത്യേകമായി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചില തിരഞ്ഞെടുപ്പുകൾ നടത്താം അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ വിവിധ വശങ്ങൾക്ക് നൽകുന്ന വെയിറ്റേജ് എല്ലാം എങ്ങനെയെങ്കിലും നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാമിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്ന രണ്ട് നാല് പ്രസ്താവനകളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിനായി നിങ്ങൾ ഒരു സാമ്പിൾ നോക്കുകയാണെങ്കിൽ കെട്ടിടങ്ങൾ ഘടനകൾ കനാലുകൾക്കും റോഡുകൾക്കുമായുള്ള വിന്യാസങ്ങൾ എന്നിവയ്ക്കായി സർവേ മാപ്പും പ്ലാൻ ലേ ഔട്ടുകളും ഇത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു നിർദ്ദിഷ്ട ഫലമാണ് ഒരു പ്രത്യേക പ്രോഗ്രാം അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ കെട്ടിട ഘടനകൾ കനാലുകൾക്കും റോഡുകൾക്കുമായുള്ള വിന്യാസങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളും ഫാക്കൽറ്റിയും അനുസരിച്ച് അവയ്ക്ക് കൂടുതൽ സവിശേഷതകൾ ചേർക്കാം അതിനാൽ സമാനമായ മറ്റ് പ്രോഗ്രാമുകളിൽ നിന്ന് ഒരു പ്രോഗ്രാമിനെ വേർതിരിച്ചറിയാൻ ഒരാൾക്ക് പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ ഉപയോഗിക്കാം കോഴ്സ് ഫലങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കോഴ്സിൻ്റെ അവസാനം വിദ്യാർത്ഥികൾ നേടേണ്ടത് കോഴ്സ് ഫലങ്ങളാണ് വീണ്ടും സിഒകൾ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായിരിക്കണം ഒരു കോഴ്സ് ഫലം പിഒകളുടെയും പിഎസ്ഒകളുടെയും ഒരു ഉപസെറ്റിനെ അഭിസംബോധന ചെയ്യുന്നു എല്ലാ പിഒകളും പിഎസ്ഒകളും പ്രധാനമായും കോഴ്സുകളിലൂടെ നേടേണ്ടതുണ്ട് അതിനാൽ ആ പരിധിവരെ എൻ്റെ സിഒകളെ പിഒകളുമായും പിഎസ്ഒകളുമായും ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഒരു കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ നിന്നുള്ള സാമ്പിൾ മെർജ്ജ് സോർട്ട് ക്വിക്ക് സോർട്ട് സെലക്ഷൻ സോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള അൽഗോരിതങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഡിവൈഡ് ആൻഡ് കോൺക്വർ ഉപായവും മനസ്സിലാക്കുന്നു അതിനാൽ ഇത് വളരെ നിശ്ചിതമാണ് ലക്ഷ്യം വളരെ വ്യക്തമാണ് ഇത് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇതെല്ലാം സചിത്രമായ ഒബിഇ നെറ്റ്വർക്കിൽ പകർത്താനാകും നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എല്ലാവർക്കും ഒരു ദർശനം സ്ഥാപനത്തിൻ്റെ ദർശനം എന്നിവ ഉണ്ടായിരിക്കണം ഇത് സ്ഥാപനത്തിൻ്റെ ദൌത്യത്തിലേക്ക് നയിക്കുന്നു ഇത് പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന വകുപ്പിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നയിക്കുകയും അത് വകുപ്പിൻ്റെ ഒരു ദൌത്യത്തിലേക്ക് നയിക്കുകയും ഇത് പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവയെ സാധാരണയായി ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉപദേശക സമിതി അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് തിരിച്ചറിയുന്നു ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളെ തിരിച്ചറിയുന്നു അതേസമയം എൻബിഎ പ്രോഗ്രാം ഫലങ്ങളെ തിരിച്ചറിയുന്നു കാലാകാലങ്ങളിൽ ഇവ മാറാം രാജ്യമെമ്പാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബാഹ്യ പശ്ചാത്തലം മാറുന്നതിനാൽ അവ ശാശ്വതമായിരിക്കില്ല ഇവിടെ പ്രസ്താവനകൾ ചെറുതായി പരിഷ്കരിക്കാൻ എൻബിഎ തീരുമാനിച്ചേക്കാം ഈ പിഒകളും പിഎസ്ഒകളും ചേർന്ന് പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നു ഇവ പാഠ്യപദ്ധതി ഘടകങ്ങളാണ് അവയ്ക്കെല്ലാം നിരവധി കോഴ്സുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും ഓരോ കോഴ്സും ഒരു കൂട്ടം കോഴ്സ് ഫലങ്ങളാൽ വിവരിക്കപ്പെടുന്നു എല്ലാ ഫലങ്ങളും തമ്മിലുള്ള ബന്ധം അതാണ് ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നവയാണ് നമ്മൾ സംസാരിക്കുന്ന നാല് തലത്തിലുള്ള ഫലങ്ങൾ ഇപ്പോൾ പങ്കെടുക്കുന്നവരെല്ലാം ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ മനസിലാക്കാൻ ഈ അസൈൻമെൻ്റുകൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം ബിരുദ പ്രോഗ്രാമിൻ്റെ ഫലങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകുക ശരി നിങ്ങളുടെ പ്രോഗ്രാം ഫലങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങൾ അർത്ഥമാക്കുന്നത് പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ എന്നാണ് ഒരു ഫലത്തിൻ്റെ എല്ലാ സവിശേഷതകളും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ബിരുദ കോഴ്സിൻ്റെ ഫലങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകുക അതിനാൽ രണ്ട് പ്രസ്താവനകളും രണ്ട് പിഎസ്ഒ പ്രസ്താവനകളും രണ്ട് സിഒ പ്രസ്താവനകളും എഴുതേണ്ടതുണ്ട് എന്നിട്ട് ഇവിടെ ഞങ്ങൾ പ്രസ്താവനകളുടെ ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട് ഏകദേശം 12 എണ്ണം ഫലത്തിൻ്റെ തോത് തിരിച്ചറിയുകയും ഫലത്തിൻ്റെ ഈ പ്രസ്താവനയുടെ നിരീക്ഷണത്തിനും അളക്കാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഔചിതൃത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ദയവായി അത് ചെയ്യുക ചിലത് നല്ല പ്രസ്താവനകളാണ് ചിലത് മോശം പ്രസ്താവനകളാണ് അവ മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ നിങ്ങൾ ഔചിതൃത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത യൂണിറ്റായ M1U5 ലേക്ക് വരുമ്പോൾ അക്രഡിറ്റേഷൻ്റെ പങ്കിനെക്കുറിച്ചും എൻബിഎ അക്രഡിറ്റേഷൻ നടത്തുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ചും മനസിലാക്കാൻ ഇത് സഹായിക്കും സിഒകൾ പിഒകൾ പിഎസ്ഒകൾ എന്നിവയുടെ തലങ്ങളിൽ ഫലങ്ങൾ നേടുന്നതിൽ ഗുണനിലവാരലൂപ്പ് അടയ്ക്കുന്നതിൻ്റെ കേന്ദ്രീകരണം മനസ്സിലാക്കുക അടുത്ത യൂണിറ്റിൻ്റെ പ്രതീക്ഷിത പഠന ഫലങ്ങൾ അതായിരിക്കും വളരെയധികം നന്ദി